സ്റ്റാർട്ടപ്പ് ഇൻ റഷ് കറന്റ് ലിമിറ്റിംഗ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് പൂജ്യമാണെന്ന് ഒരു സെഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓർക്കുക കപ്പാസിറ്ററിൽ ഊർജം ഇല്ല പെട്ടെന്ന് ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ് ഓണാകുമ്പോൾ കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് പ്രയോഗിക്കുന്നു വോൾട്ടേജിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രത്യക്ഷപ്പെടുകയും വളരെ വലിയ കറന്റ് ഒഴുകുകയും ചെയ്യും ചെയ്യുന്ന സമയത്ത് ആകസ്മികമായി ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ് പൂജ്യത്തിലാണെങ്കിൽ ഇൻ റഷ് കറന്റ് സ്വയമേവ പരിമിതമായിരിക്കും എന്നിരുന്നാലും റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ടേൺ ഓണോ സ്വിച്ച് ഓണോ ഇൻപുട്ട് സോഴ്സുമായി സമന്വയിപ്പിക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇൻപുട്ട് സോഴ്സ് അതിന്റെ ഏറ്റവും ഉയർന്ന Vm ആയിരിക്കുമ്പോഴാണ് ഏറ്റവും മോശം അവസ്ഥ അതിനാൽ ഇൻപുട്ട് സോഴ്സ് അതിന്റെ ഏറ്റവും ഉയർന്ന Vm ൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഓണാക്കിയാൽ കപ്പാസിറ്റർ വോൾട്ടേജ് പൂജ്യമാണ് ഡയോഡിലൂടെയും കപ്പാസിറ്ററിലൂടെയും സോഴ്സിന്റെ ഷോർട്ട് സർക്യൂട്ട് പാതയിൽ Vm മൂല്യത്തിന്റെ ഒരു വലിയ വോൾട്ടേജ് കാണപ്പെടുന്നു ഇത് ഡയോഡുകൾ പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകും അതിനാൽ ഈ സ്റ്റാർട്ടപ്പ് സർജ് കറന്റ് പരിമിതപ്പെടുത്തുന്ന ചില സംരക്ഷണ സംവിധാനം നമ്മൾ നൽകേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ ഈ പ്രത്യേക വീഡിയോ ക്യാപ്സ്യൂളിന്റെ ലക്ഷ്യം അതാണ് ഈ കുതിച്ചുചാട്ടത്തെ എങ്ങനെ പരിപാലിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് നോക്കാം ഈ റക്റ്റിഫയർ സർക്യൂട്ട് ഇവിടെ പരിഗണിക്കുക ഇവിടെയാണ് നമ്മൾ സോഴ്സ് 230 വോൾട്ട് AC ബന്ധിപ്പിക്കുന്നത് നിങ്ങൾ ഇത് ബന്ധിപ്പിക്കുന്ന നിമിഷം ഈ പാതയിലെ ഇംപെഡൻസ് പാരസിറ്റിക്സ് ട്രാക്ക് ഇൻഡക്ടൻസും കപ്പാസിറ്ററുകളുടെ ESR ഉം അത്തരം നോൺ ഐഡിയാലിറ്റികളും കൊണ്ട് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ആ സമയത്തെ ഇൻ റഷ് സർജ് കറന്റ് വളരെ വലുതായിരിക്കും കപ്പാസിറ്റൻസ് വോൾട്ടേജ് പൂജ്യം ആയിരിക്കുകയും ചെയ്യും ഇത് ഈ ഡയോഡുകളെ തകർക്കും അതിനാൽ സ്റ്റാർട്ടപ്പ് സമയത്ത് ഈ ഇൻ റഷ് സർജ് കറന്റ് പരിമിതപ്പെടുത്താൻ നമുക്ക് എന്തുചെയ്യാനാകുമെന്ന് നോക്കാം ഒരു ലളിതമായ പരിഹാരം ഇവിടെ ഇംപെഡൻസ് സീരീസിൽ ഇടുക എന്നതാണ് അതിനാൽ നമുക്ക് ശ്രമിക്കാവുന്നത് സോഴ്സിലേക്കാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് Rs സീരീസ് റെസിസ്റ്റൻസ് കണക്റ്റുചെയ്ത് ഈ രീതിയിൽ ബന്ധിപ്പിക്കും അതിനാൽ ഈ വിധത്തിൽ ഈ Rs സ്റ്റാർട്ടപ്പ് ഇൻ റഷ് കറന്റ് പരിമിതപ്പെടുത്താനും ഡയോഡുകളുടെ റേറ്റിംഗിൽ ആയിരിക്കുന്ന തരത്തിൽ Rs മൂല്യം തിരഞ്ഞെടുക്കാനും കഴിയും സ്റ്റാർട്ടപ്പ് സമയത്ത് ഇവിടെ വോൾട്ടേജ് പൂജ്യമാണ് ഈ നോഡിൽ സാധ്യമായ പരമാവധി വോൾട്ടേജ് 325 ആയിരിക്കും അത് 230√2 ആണ് അതിനാൽ 325 Rs ന് കുറുകെ വരും അതിനാൽ ഈ ഡയോഡുകളുടെ റേറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് Rs ന്റെ മൂല്യം ഉചിതമായി തിരഞ്ഞെടുക്കാം എന്നിരുന്നാലും Rs പവറിനെ ഇല്ലാതാക്കുമെന്ന അർത്ഥത്തിൽ ഇത് വളരെ നല്ല പരിഹാരമല്ല ഫുൾ ലോഡ് കറന്റ് എല്ലായ്പ്പോഴും Rs ലൂടെ കടന്നുപോകും Rs ന്റെ മൂല്യം എന്തായാലും ഈ Irms2Rs വൈദ്യുതി റെസിസ്റ്ററിൽ നഷ്ടപ്പെടും അതിനാൽ സർക്യൂട്ടിന്റെ കാര്യക്ഷമത കുറയും അതിനാൽ ഈ പ്രശ്നം തരണം ചെയ്യുന്നതിനുള്ള ഒരു ലളിതമായ പരിഹാരം തുടക്കത്തിൽ Rs സർക്യൂട്ടിൽ ആയിരിക്കാം കപ്പാസിറ്ററുകൾ ചാർജ്ജ് വർദ്ധിപ്പിക്കുമ്പോൾ Rs സർക്യൂട്ടിൽ നിന്ന് നീക്കം ചെയ്യാം അതൊരു നല്ല പരിഹാരമായിരിക്കും അതിനാൽ അതിനായി ആളുകൾ ചെയ്യുന്നത് Rs ഒരു തെർമിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഒരു തെർമിസ്റ്റർ ഒരു പ്രത്യേക ഉപകരണമാണ് അതിനാൽ ഇതൊരു തെർമിസ്റ്ററാണ് തെർമിസ്റ്ററിനെ വിപണിയിൽ പല പേരുകളിൽ വിളിക്കുന്നു ഇത് ഒരൊറ്റ ഘടകം രണ്ട് ടെർമിനൽ ഘടകങ്ങൾ ലഭ്യമാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഉപകരണത്തിന് ഇത് NTC എന്നും അറിയപ്പെടുന്നു അതായത് താപനില ഉയരുമ്പോൾ ഒരു സാധാരണ റെസിസ്റ്ററിന് പ്രതിരോധ മൂല്യം വർദ്ധിക്കും തെർമിസ്റ്ററിന്റെ കാര്യത്തിൽ താപനില കൂടുന്നതിനനുസരിച്ച് പ്രതിരോധത്തിന്റെ മൂല്യം കുറയും അതിനാൽ ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിൽ ഇത് എങ്ങനെ സഹായിക്കും നമുക്ക് സ്റ്റാർട്ടപ്പ് സമയത്ത് തെർമിസ്റ്റർ പ്രതിരോധത്തിന്റെ കോൾഡ് വാല്യൂ 10Ω ആണെന്ന് പറയാം തുടക്കത്തിൽ 10Ω സ്റ്റാർട്ടപ്പ് സർജ് കറന്റ് പരിമിതപ്പെടുത്തുകയും കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും സ്ഥിരമായ അവസ്ഥയിലെത്തുകയും ചെയ്യും കപ്പാസിറ്റർ സ്ഥിരത കൈവരിക്കുമ്പോൾ പൂർണ്ണ ലോഡ് കറന്റ് തെർമിസ്റ്ററിലൂടെ കടന്നുപോകുന്നു അത് താപം വിനിയോഗിക്കുകയും അത് ചൂടാകുകയും ചെയ്യും ഒരിക്കൽ അത് ചൂടാകാൻ തുടങ്ങിയാൽ തെർമിസ്റ്ററിന്റെ പ്രതിരോധ മൂല്യം കുറയും അത് ഒരുപക്ഷേ 0 5 Ω ന്റെ ക്രമമായി മാറിയേക്കാം തെർമിസ്റ്ററിന്റെ പ്രതിരോധത്തിന്റെ ഹോട് വാല്യൂ 0 5 Ω ആയിരിക്കാം ഇപ്പോൾ ഇത് ഗണ്യമായ ഇടിവാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിൽ ഉണ്ടായിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘടകമാണിത് അവിടെ സ്റ്റാർട്ടപ്പ് സമയത്ത് വളരെ ഉയർന്ന കോൾഡ് വാല്യൂ കറന്റ് പരിമിതപ്പെടുത്തുന്നു സർക്യൂട്ടിന്റെ സാധാരണ സ്ഥിരമായ പ്രവർത്തന സമയത്ത് ചൂടാകുന്ന തെർമിസ്റ്റർ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു ഏകദേശം 0 അതിനാൽ ഇത് വളരെ നല്ല ഘടകമാണ് ഇതിനെ സർജ് ലിമിറ്റർ എന്നും വിളിക്കുന്നു പല നിർമ്മാതാക്കളും അവയെ സർജ് ലിമിറ്റർ തെർമിസ്റ്റർ NTC നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഡിവൈസ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പേര് ഇപ്പോൾ നമുക്ക് അതിനൊപ്പം നീങ്ങാം പക്ഷേ ഇതിന് കുറഞ്ഞ സമയ സ്ഥിരതയുണ്ട് എന്നതാണ് പ്രശ്നം കോൾഡ് വാല്യൂവിൽ നിന്ന് ഹോട്ട് വാല്യൂവിലേക്കുള്ള മാറ്റത്തിന് തെർമിസ്റ്ററിന്റെ വലുപ്പമനുസരിച്ച് സെക്കൻഡുകളോ നൂറുകണക്കിന് മില്ലി സെക്കൻഡുകളോ എടുത്തേക്കാം താഴത്തെ അറ്റത്ത് 1 മുതൽ 2 ആംപിയർ വരെയുള്ള തെർമിസ്റ്ററുകൾ 50 amps ഓ ഉയർന്ന അറ്റത്ത് 60 amps ഓ വരെ നിങ്ങൾക്ക് കണ്ടെത്താം ഇപ്പോൾ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക സ്ഥിരതയുള്ള അവസ്ഥയിൽ എത്തുന്നു തെർമിസ്റ്റർ ചൂടാണ് ഇപ്പോൾ വൈദ്യുതി പെട്ടെന്ന് പോകുന്നു വൈദ്യുതി പെട്ടെന്ന് പോകുന്ന നിമിഷം തെർമിസ്റ്റർ പെട്ടെന്ന് അതിന്റെ കോൾഡ് വാല്യൂ വീണ്ടെടുക്കില്ല കുറച്ച് സമയമെടുക്കും അതിനുമുമ്പ് നമുക്ക് പറയാം പവർ വീണ്ടും വരുന്നു അത്തരം സന്ദർഭങ്ങളിൽ തെർമിസ്റ്റർ പരിരക്ഷിക്കില്ല കാരണം തെർമിസ്റ്റർ അതിന്റെ പഴയ മൂല്യം ഇതുവരെ വീണ്ടെടുത്തിട്ടില്ല നിങ്ങൾക്ക് വലിയ സ്റ്റാർട്ടപ്പ് സർജ് കറന്റ് ഉണ്ടായിരിക്കും അത് ആ സമയത്ത് ഡയോഡുകൾ ലോഡ് ചെയ്തേക്കാം അതിനാൽ ഇത് തെർമിസ്റ്ററിന്റെ ഒരു പോരായ്മയാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം തേടേണ്ടിവരും നമുക്ക് ഒരു റിലേ ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു പരിഹാരം ഈ സാഹചര്യത്തിൽ നമ്മൾ മുമ്പത്തെപ്പോലെ അവതരിപ്പിക്കും പ്രതിരോധം കാണിച്ചിരിക്കുന്നു ഇൻപുട്ട് ഉറവിടം ഈ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിലുടനീളം ഒരു റിലേ സ്വിച്ച് ബന്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഈ റിലേ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട് അതിനാൽ റിലേയുടെ ഊർജ്ജം ഒരു കോയിൽ മുഖേന ആയിരിക്കും അതിനാൽ കോയിലിൽ കുറച്ച് വൈദ്യുതി ഒഴുക്ക് ഉണ്ടാകുമ്പോൾ റിലേ ഊർജ്ജസ്വലമാക്കുകയും അത് ഒഴുക്കുകൾ ഉണർത്തുകയും പ്രതിരോധത്തെ മറികടക്കുകയും ചെയ്യും ഇവിടെ പ്രവർത്തനം വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഉറവിടം ഉണ്ട് ബ്രിഡ്ജ് റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടറിലേക്കുള്ള പ്രതിരോധത്തിലൂടെ സോഴ്സ് ബന്ധിപ്പിച്ചിരിക്കുന്നു റിലേ ഓഫായിരിക്കുന്നിടത്തോളം കാലം ഈ കോയിലിനെ നമ്മൾ ഊർജ്ജസ്വലമാക്കുമായിരുന്നില്ല കാരണം സോഴ്സിൽ നിന്നുള്ള കറന്റ് പ്രതിരോധത്തിലൂടെയും പുറകിലൂടെയും കടന്നുപോകുന്നു കപ്പാസിറ്റർ വോൾട്ടേജ് നിർമ്മിച്ച നിമിഷം 2 സൈക്കിളുകൾക്ക് ശേഷം ഈ സ്വിച്ച് അടയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം ആ സമയത്ത് ഈ റിലേയെ ഊർജ്ജസ്വലമാക്കുക അങ്ങനെ ഈ സ്വിച്ച് അടയ്ക്കും ഇപ്പോൾ പ്രതിരോധം ബൈപാസ് ചെയ്തിരിക്കുന്നു ആ റിലേയിലൂടെ കറന്റ് ഒഴുകുകയും സാധാരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഊർജസ്വലമാക്കും എന്നതാണ് പ്രശ്നം ഈ കപ്പാസിറ്റൻസിൽ നിന്ന് നമുക്ക് എടുക്കാം ഈ കപ്പാസിറ്റൻസിൽ നിന്ന് നമ്മൾ DC ടാപ്പ് ചെയ്യുക തുടർന്ന് ഉചിതമായി ഈ റിലേ മാറ്റേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യും ഞാൻ ഒരു സാധാരണ സാമ്പിൾ സർക്യൂട്ട് നൽകട്ടെ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റെസിസ്റ്റൻസ് ഡിവൈഡറും കപ്പാസിറ്റൻസും ഇട്ടുവെന്നു പറയാം അതിനാൽ ഇത് റിലേ സർക്യൂട്ടിനുള്ള പൊതു പോയിന്റായി പരിഗണിക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ അറ്റൻവേറ്റർ പോലെയാണ് അതിനാൽ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ടുവെന്നു പറയാം നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല പക്ഷേ ആശയം നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ നിന്ന് തന്നെ പവർ എടുക്കുന്നതുപോലെയാണ് കപ്പാസിറ്റർ വോൾട്ടേജ് നിർമ്മിക്കുമ്പോൾ ഇത് ഒരു ലോഡ് പോലെ പ്രവർത്തിക്കുന്നു തുടർന്ന് ഈ കപ്പാസിറ്റർ ഡിസി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു ഇത് കോയിലിലേക്ക് കറന്റ് പമ്പ് ചെയ്യും അങ്ങനെ കോയിലിന് ഊർജ്ജം ലഭിക്കും എന്നാൽ ഈ സ്വിച്ച് ഓണാക്കുന്നതിന് ആവശ്യമായ ഊർജ്ജസ്വലമായ കറന്റ് ഈ റെസിസ്റ്ററും ഈ റെസിസ്റ്ററുകളും തീരുമാനിക്കുന്നു ഒരു സ്വിച്ച് മോഡ് തരത്തിലുള്ള കോൺഫിഗറേഷനിലെന്നപോലെ നിങ്ങൾക്ക് ഈ റിലേ പ്രവർത്തിക്കാനും കഴിയും ഇനിയും മികച്ച സർക്യൂട്ട് ഏതാണെന്ന് ഞാൻ കാണിക്കും ഇത് ഒരു സ്വിച്ച് പോലെ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ഈ ഭാഗം മായ്ക്കും ഞാൻ ഇവിടെ ഒരു ഭാഗവും മായ്ക്കും ഇപ്പോൾ ഒരു npn ട്രാൻസിസ്റ്റർ ഇടും എനിക്ക് ഈ ട്രാൻസിസ്റ്റർ ഡ്രൈവ് ചെയ്യണം ഇപ്പോൾ ഒരു സെനറും തുടർന്ന് നമ്മൾ അവിടെ നിന്ന് എടുക്കും നമ്മൾ അതിൽ ചേരും ഇപ്പോൾ നമുക്ക് ഫ്രീ വീലിനായി ഇവിടെ ഒരു ഡയോഡ് ആവശ്യമാണ് നമ്മുടെ കേസ് അൽപ്പം സങ്കീർണ്ണമാണ് പക്ഷേ അത്ര മാത്രം സങ്കീർണ്ണമല്ല ഞാൻ ഇത് വിശദീകരിക്കും ഇപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ അടിസ്ഥാന ഡ്രൈവായ ചുവപ്പിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ ഈ ഭാഗം പരിഗണിക്കുക ഇപ്പോൾ ആദ്യം മുതൽ ആരംഭിക്കുക സപ്ലൈ ഓണാക്കി കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണ് ഈ സ്വിച്ച് ഓഫ് ആണ് ഈ റെസിസ്റ്ററിലൂടെ കറന്റ് ഒഴുകുകയും കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ വർദ്ധിക്കുന്നു ഈ പൊട്ടൻഷ്യൽ വർദ്ധിക്കുന്നതിനാൽ ഈ പൊട്ടൻഷ്യൽ ഈ സെനർ ഡ്രോപ്പ് പ്ലസ് Vbe 0 7 നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ അത് ഒരു ഘട്ടത്തിലെത്തും ഇത് Vz 0 7 നപ്പുറം പോയാൽ ഇത് മുറിക്കപ്പെടുകയും അടിസ്ഥാന ഡ്രൈവ് ഈ ട്രാൻസിസ്റ്ററിലൂടെ ഒഴുകുകയും ചെയ്യും ഈ ട്രാൻസിസ്റ്ററിലൂടെ ഒരു അടിസ്ഥാന ഡ്രൈവ് ഒഴുകിയാൽ ഈ ദിശയിൽ റിലേയുടെ കോയിലിലൂടെ ഒരു കറന്റ് ഒഴുക്ക് ഉണ്ടാകും അതിനാൽ റിലേ ഓണാകും അതിനർത്ഥം ഇത് ഓണാകുകയും റെസിസ്റ്റർ കടന്നുപോകുന്നതിലൂടെ കറന്റ് ഇപ്പോൾ റിലേയിലൂടെ ഒഴുകുകയും ചെയ്യും ഇനി പവർ സ്വിച്ച് ഓഫ് ചെയ്യുന്നു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു അത് ലോഡിലൂടെ വളരെ വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു കാരണം ഇത് ഉയർന്ന വൈദ്യുതധാരയാണ് ഇത് വളരെ ചെറിയ കറന്റാണ് ഒരുപക്ഷേ റിലേയെ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള മൊത്തം ലോഡ് കറന്റിന്റെ 1 അല്ലെങ്കിൽ 2 ശതമാനം ഈ സാധ്യത കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും ഈ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ Vz 0 7 ന് താഴെ പോയാൽ ഈ ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും ഈ ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻഡക്റ്റീവ് കറന്റ് ഉണ്ടെങ്കിൽ പോലും ഇത് ഈ രീതിയിൽ ഫ്രീ വീൽ ചെയ്യും 10 മുതൽ 12 Ω വരെ ക്രമത്തിൽ റിലേ കോയിലുകൾക്ക് വളരെ വലിയ പ്രതിരോധം ഉള്ളതിനാൽ നിങ്ങൾക്ക് ഒരു ഡയോഡ് മതിയാകും അങ്ങനെ അത് ചിതറിപ്പോകുകയും പവർ വരുമ്പോൾ ഉടനടി റെസിസ്റ്റർ പ്രവർത്തനക്ഷമമാവുകയും കുറച്ച് സമയത്തിന് ശേഷം റിലേ വീണ്ടും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും അതിനാൽ സർജ് കറന്റ് പരിമിതപ്പെടുത്താൻ റിലേ സഹായിക്കും മോസ്ഫെറ്റിന്റെ ഉപയോഗം കൊണ്ട് സർജ് പരിമിതപ്പെടുത്തുന്നതാണ് മറ്റൊരു രീതി ഇതാണ് പതിവ് റക്റ്റിഫയർ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് ഞാൻ ഈ പോയിന്റ് ഒഴിവാക്കി അതിനാൽ വയറിന്റെ ഈ ഭാഗം നീക്കം ചെയ്തു അതിനാൽ യഥാർത്ഥത്തിൽ ഇവ രണ്ടും ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇംപെഡൻസ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ ഇംപെഡൻസ് ഒരു MOSFET രൂപത്തിലാണ് ഞാൻ ഇവിടെ MOSFET സർക്യൂട്ട് വരയ്ക്കട്ടെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഡിവിഷനും ഇതുപോലെ ഒരു കപ്പാസിറ്റൻസും ഉണ്ട് ഇപ്പോൾ നമുക്ക് പറയാം ഇത് ഈ പോയിന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇവിടെ സോഴ്സ് ബന്ധിപ്പിച്ചിരിക്കുന്നു സോഴ്സ് ഓണായിരിക്കുന്നു കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണ് സോഴ്സ് കടന്നുപോകുകയും ഈ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുകയും ചെയ്യും MOSFET നുള്ള ഗേറ്റ് ഡ്രൈവ് വർദ്ധിക്കുന്നു അതിനാൽ MOSFET ഗേറ്റ് വോൾട്ടേജ് ഒരു പരിധി മറികടക്കുന്നു MOSFET ലീനിയർ റീജിയണിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു ഈ പ്രതിരോധം കുറയാൻ തുടങ്ങുന്നു അതിനാൽ അത് ലീനിയർ റീജിയണിൽ ആയിരിക്കുമ്പോൾ കപ്പാസിറ്ററും ചാർജ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാം അതുവഴി സർജ് കറന്റ് പരിമിതപ്പെടുത്തുന്നു പിന്നീട് ഇത് 12 വോൾട്ട് അല്ലെങ്കിൽ 15 വോൾട്ട് ആയി ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിവിഷൻ അങ്ങനെയാണെങ്കിൽ ഇത് ആത്യന്തികമായി സ്ഥിരതയുള്ള അവസ്ഥയിൽ 15 വോൾട്ടിലേക്ക് വരും സാധാരണ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ഇത് പൂർണ്ണമായും ഓണായിരിക്കും ഉറവിടം സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഒരു വലിയ കപ്പാസിറ്ററാണ് ഇത് വളരെ ചെറിയ കപ്പാസിറ്ററാണ് അതിനാൽ ഇവിടെ വലിയ അളവിൽ ചാർജ് ഈടാക്കാം ഇത് ഓഫാക്കില്ല കാരണം ഇവിടെ ഒരു ബോഡി ഡയോഡ് ഉണ്ട് എല്ലാ MOSFET നും ഒരു ബോഡി ഡയോഡ് ഉണ്ട് അതായത് ഇവ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിന് ഇതുപോലെ കുറച്ച് ചാർജ് ഒഴുക്ക് ഉണ്ടാകും അതായത് ഇത് ചാർജ്ജ് ചെയ്യപ്പെടും ഇത് ഓഫാകില്ല അതിനാൽ ഔട്ട്പുട്ട് കപ്പാസിറ്ററും ഗേറ്റ് ഡ്രൈവ് കപ്പാസിറ്ററും വേർപെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുവഴി ഓരോന്നിനും ഡിസൈൻ അനുസരിച്ച് സ്വന്തം സമയ സ്ഥിരത കൈവരിക്കാനാകും അതിനാൽ നമ്മൾ ഇവിടെ ബന്ധം സ്ഥാപിക്കില്ല നമ്മൾ ആ കണക്ഷൻ നീക്കം ചെയ്യുകയും ഇതുപോലെ ഇൻപുട്ടിലേക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇതുവഴി കപ്പാസിറ്ററും ഇതും വേർപെടുത്തുന്നു ഇപ്പോൾ നോക്കൂ ഓപ്പറേഷൻ മുമ്പത്തേതിന് സമാനമാണ് ഇതും ഇതും വേർപെടുത്തിയിരിക്കുന്നു എന്നു മാത്രമാണ് ഇനി നമുക്ക് ഓപ്പറേഷൻ നോക്കാം നിങ്ങൾ സോഴ്സ് ഓണാക്കുമ്പോൾ കപ്പാസിറ്റൻസ് ചാർജ്ജ് ചെയ്ത് വീണ്ടും വീണ്ടും ഒഴുകും യഥാർത്ഥത്തിൽ ഈ രണ്ട് പച്ച ഡയോഡുകളും താഴെയുള്ള ഡയോഡുകളും ഒരു ഫുൾ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു ഇവ രണ്ടും സിഗ്നൽ ഡയോഡുകളായിരിക്കും അവ ഗേറ്റ് ഡ്രൈവ് കറന്റ് മാത്രം വഹിക്കും പവർ വഹിക്കില്ല അതിനാൽ ഇത് ചാർജ് ചെയ്യപ്പെടുന്നതിനാൽ ഇത് ഓണാക്കാൻ ശ്രമിക്കുന്നു ലീനിയർ റീജിയനിലൂടെ കറന്റ് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു തുടർന്ന് സ്ഥിരതയിലെത്തിയ ശേഷം ഇത് 15 വോൾട്ട് ആയിരിക്കും ഇത് പൂർണ്ണമായും ഓണാകും ഇപ്പോൾ ഇത് ഓഫാകുകയും സോഴ്സ് ഓഫാകുകയും ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഡയോഡുകൾ ഇതിലുണ്ട് തീർച്ചയായും ഇത് ശരിയും അനുവദനീയവും അഭികാമ്യവുമായ ലോഡിലൂടെ ചാർജ് ചെയ്യപ്പെടും എന്നാൽ ഈ കപ്പാസിറ്റർ തിരികെ വന്ന് ഇത് ചാർജ് ചെയ്യാൻ പാടില്ല ഈ രണ്ടും ഈ രണ്ട് ഡീകൂപ്പ്ഡ് ഫുൾ ബ്രിഡ്ജുകളും കാരണം ഇത് തടയപ്പെടുന്നു അതിനാൽ ഈ രീതിയിൽ ഈ MOSFET ന് ഒരു ലീനിയർ റെസിസ്റ്ററിനെപ്പോലെ ചലനാത്മകമായി മാറുകയും കുതിച്ചുചാട്ടം പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള സർക്യൂട്ടിൽ നൽകാവുന്ന തുടർച്ചയായ പരിരക്ഷയുടെ ഒരു തലം കൂടി ഉദാഹരണത്തിന് ഞാൻ ഈ ഭാഗം മായ്ക്കുന്നു സൂക്ഷിച്ചു നോക്കൂ ഞാൻ ഇപ്പോൾ മറ്റൊരു നിറം ഉപയോഗിക്കും ഇല്ല ഞാൻ നീല നിറം തന്നെ ഉപയോഗിക്കും ഇനി നമുക്ക് പറയാം എനിക്ക് ഇതുപോലൊരു പ്രതിരോധം ഉണ്ടെന്നും എനിക്ക് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെന്നും ട്രാൻസിസ്റ്റർ ഇതുപോലെ കണക്റ്റുചെയ്തിരിക്കുകയും സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണും ഈ കിങ്ക് നീക്കം ചെയ്യട്ടെ സാധാരണ പ്രവർത്തനം നോക്കാം സാധാരണ ഓപ്പറേഷൻ നേരത്തെ ചർച്ച ചെയ്തതുപോലെയാണ് ഇപ്പോൾ ഈ അധിക കാര്യം ഇട്ടിരിക്കുന്നു സാധാരണ പ്രവർത്തനം ഇത് ഇതുപോലെ കടന്നുപോകുന്നതാണ് കറൻറ് ഒഴുക്ക് ഇതുപോലെ MOSFET ലൂടെയും പിന്നീട് R വഴിയും ആണ് ഇപ്പോൾ ഇതിലൂടെയുള്ള കറന്റ് ഒരു പ്രത്യേക മൂല്യത്തിനപ്പുറം പോകുമ്പോൾ ഈ പ്രതിരോധത്തിലുടനീളം ഒരു ഡ്രോപ്പ് ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ ഈ പ്രതിരോധം ഈ npn ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നേരിട്ട് വരുന്നു ഒരിക്കൽ ഈ ഡ്രോപ്പ് 0 6 കടന്നാൽ ഈ റെസിസ്റ്റർ തിരഞ്ഞെടുക്കാം ഇത് മുറിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഒരിക്കൽ ഇത് ഈ ഇംപെഡൻസ് ഡ്രോപ്പിൽ മുറിക്കാൻ ശ്രമിച്ചാൽ ഈ കപ്പാസിറ്റർ ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യുകയും ഈ വോൾട്ടേജ് കുറയുകയും ചെയ്യും ഈ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ MOSFET സാച്ചുറേഷനിൽ നിന്ന് പുറത്തുവരുന്നു ലീനിയർ റീജിയനിലേക്ക് പോകുകയും ഇവിടെ നിലവിലെ ഒഴുക്ക് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരുതരം തുടർച്ചയായ സ്വയം സംരക്ഷണ സർക്യൂട്ട് ഇത് വളരെ രസകരമാണ് ഇത് ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല ഇതിനെയാണ് BJT ഉപയോഗിച്ച് സ്വയം സംരക്ഷണ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് അതിനാൽ റക്റ്റിഫയർ ഫുൾ ബ്രിഡ്ജിനൊപ്പം ഉപയോഗിക്കാവുന്ന വളരെ ശക്തമായ സർജ് കറന്റ് ലിമിറ്റിംഗ് സർക്യൂട്ടിൽ ഒന്നാണിത് അതിനാൽ ഇത് ഉപയോഗിച്ച് ഞാൻ റക്റ്റിഫയറിന്റെയും സി ഫിൽട്ടറിന്റെയും ഈ വിഷയം അവസാനിപ്പിക്കും ഞാൻ അവലോകന സ്ലൈഡിലേക്ക് മടങ്ങട്ടെ മുഴുവൻ DC DC കൺവെർട്ടർ സിസ്റ്റത്തിന്റെയും ബേർസ് ഐ വ്യൂവിൽ നമ്മൾ ചർച്ച ചെയ്ത സിസ്റ്റം അവലോകനത്തിന്റെ ഈ വിവരണത്തോടെയാണ് നമ്മൾ ആരംഭിച്ചതെന്ന് നിങ്ങൾ കാണാം ഇതുവരെ നമ്മൾ റക്റ്റിഫയറിനേയും ഫിൽട്ടറിനേയും കുറിച്ച് ചർച്ച ചെയ്തു 230 വോൾട്ട് അല്ലെങ്കിൽ AC ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഒരു ഡിസി എങ്ങനെ നേടാമെന്ന് നമുക്കറിയാം അതിനാൽ ഇപ്പോൾ മുതൽ നമ്മുടെ എല്ലാ ചർച്ചകളും ഡിസി ഡിസി കൺവെർട്ടറിൽ മാത്രം കേന്ദ്രീകരിക്കും ഈ സമയത്ത് ബാറ്ററിയിൽ നിന്നോ റക്റ്റിഫയർ ഫിൽട്ടർ കോമ്പിനേഷനിൽ നിന്നോ ലഭിച്ച വിശ്വസനീയമായ ഡിസി നമ്മുടെ പക്കലുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാവുന്ന ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ കുറച്ച് പ്രായോഗിക ടാസ്ക്കുകളും ഇട്ടിട്ടുണ്ട് gEDA സ്കീമാറ്റിക്കിൽ റക്റ്റിഫയർ ഫിൽട്ടറിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓർക്കുക ഞാൻ ആ സ്കീമാറ്റിക് ഇട്ടിട്ടുണ്ട് മറ്റ് രണ്ട് സ്കീമാറ്റിക്സും ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഫോൾഡറിൽ അവ നിങ്ങൾക്ക് കാണിച്ചുതരാം മറ്റൊരു സ്കീമാറ്റിക് ഇതുപോലെയാണ് ഇവിടെ ഞാൻ രണ്ട് നോൺ ഐഡിയലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് സ്രോതസ്സിൽ നിന്ന് ബ്രിഡ്ജ്ന്റെ മധ്യഭാഗത്തേക്ക് എസി വശത്തുള്ള ട്രാക്ക് ഇൻഡക്റ്റൻസാണ് മറ്റൊന്ന് റക്റ്റിഫയറിൽ നിന്ന് സി ഫിൽട്ടർ ഭാഗത്തേക്കുള്ള ട്രാക്ക് ഇൻഡക്ടൻസാണ് അതിനാൽ നമ്മൾ ഇത് ഉൾക്കൊള്ളിക്കുന്നു ഇപ്പോൾ നമ്മൾ സിമുലേറ്റ് ചെയ്യുകയും വിവിധ തരംഗ രൂപങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കാണുകയും ചെയ്യുന്നു ഈ ഇൻഡക്ടൻസ് മൂല്യം നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റക്റ്റിഫയർ LC ഫിൽട്ടർ സർക്യൂട്ടായി മാറും നിങ്ങൾ ശ്രമിക്കേണ്ട രസകരമായ ഒരു കാര്യം ഞാൻ ഉൾപ്പെടുത്തിയ മറ്റൊരു എക്സസൈസ് ഇതാണ് ഞാൻ ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട് കൂടാതെ എല്ലാ ഡയോഡുകൾക്കും ഒരേ ആദർശ സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ വികലമാക്കാൻ ശ്രമിക്കുന്നു ഇതൊരു പ്രായോഗിക സാഹചര്യമാണ് ഇതിനുള്ള വൈദ്യുതധാരകളും വോൾട്ടേജുകളും നിരീക്ഷിക്കുകയും ഈ മൂല്യങ്ങളുമായി പെരുമാറുകയും ചെയ്യുക ഓസിലോസ്കോപ്പിലെ ഒരു യഥാർത്ഥ സർക്യൂട്ടിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാനാകും